വ്യത്യസ്ത സമയങ്ങളിൽ ഒന്നിലധികം ഉറവിടങ്ങൾ മാറുന്ന ഒരു ഉദാഹരണം ഞങ്ങൾ ഇപ്പോൾ പരിഗണിക്കും അടിസ്ഥാനപരമായി ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്ത ഏതെങ്കിലും കേസിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാൽ കുറച്ചുകൂടി കണക്കെഴുത്ത് ഉൾപ്പെടുന്നു എല്ലായ്പ്പോഴും സിംഗിൾ കപ്പാസിറ്ററുള്ള ഒരു സർക്യൂട്ട് ഇത് 1 നാനോഫറാഡ് ആണ് ഈ റെസിസ്റ്ററുകൾ 2 കിലോ Ω 2 കിലോ Ω 1 കിലോ Ω എന്നിവയാണ് കൂടാതെ എനിക്ക് കറന്റ് സോഴ്സ്ഉം ഉണ്ട് t 0 ൽ Vs 0 മുതൽ 10 വോൾട്ട് വരെയും I s t 2 മൈക്രോ സെക്കൻഡിൽ 0 ൽ നിന്ന് 10 മില്ലി ആംപ്സ് വരെയും മാറുന്നു അതിനാൽ എനിക്ക് ഇവ വരയ്ക്കണമെങ്കിൽ ഇത് V s ആയിരിക്കും x ആക്സിസ് ടൈം ആണ് y ആക്സിസ് ഒന്നുകിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ആണ് I s എന്നത് t 2 മൈക്രോ സെക്കൻഡിൽ 0 മുതൽ 10 മില്ലി ആംപ് വരെ പോകും ഇത് അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ പ്രധാനമായും കപ്പാസിറ്റർ 1 1 പ്രൈമിന്റെ ടെർമിനലുകൾക്കിടയിൽ ഒറ്റ സോഴ്സ്ഉം സീരീസിൽ സിംഗിൾ റെസിസ്റ്ററും അല്ലെങ്കിൽ സിംഗിൾ റെസിസ്റ്ററിന് സമാന്തരമായി ഒരൊറ്റ കറന്റ് സോഴ്സ്ഉം ഉപയോഗിച്ച് നമുക്ക് ഇപ്പോഴും പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ ഒന്നുകിൽ ഇവിടെ തെവെനിൻ ഇക്വിവലെന്റ് ഉപയോഗിക്കും എന്നാൽ നിങ്ങൾക്ക് നോർട്ടൺ ഇക്വിവലെന്റ് ഉപയോഗിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യാം ഉത്തരങ്ങൾ സമാനമാണ് ഞാൻ ഇവയെ Vs എന്നും I s എന്നും വിളിക്കാം അവയെ ഇപ്പോൾ വേരിയബിളുകളായി 1 1 പ്രൈം ആയി സൂക്ഷിക്കാം ഇതാണ് എന്റെ പക്കൽ ഉള്ളത് അതിനാൽ ഇപ്പോൾ തെവെനിൻ ഇക്വിവലെന്റ് വോൾട്ടേജ് കണക്കാക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും കാണിക്കില്ല അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കൂടാതെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ 1 1 പ്രൈമിന് ഇടയിലുള്ള വോൾട്ടേജ് നിങ്ങൾ കാണും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെവെനിൻ വോൾട്ടേജ് പുറത്തുവരും V s 2 I s തവണ 1 കിലോ Ω ആകാൻ അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് വിലയിരുത്തുകയാണെങ്കിൽ Vs ചില സമയങ്ങളിൽ മാറുന്നു I s മറ്റൊരു സമയത്ത് മാറുന്നു I s അങ്ങനെയാണ് അതിനാൽ നിങ്ങൾ ഈ മുഴുവൻ ഇൻപുട്ടും സർക്യൂട്ടിലേക്ക് സ്കെച്ച് ചെയ്താൽ അങ്ങനെ ഞാൻ R t h ന്റെ ശ്രേണിയിൽ V t h കണക്കാക്കുകയും എന്റെ കപ്പാസിറ്റർ അവിടെ 1 നാനോഫറാഡ് ആണെങ്കിൽ ഞാൻ ഈ V t h സ്കെച്ച് ചെയ്താൽ അത് പോലെ കാണപ്പെടും അതിനാൽ ശരിക്കും ഞാൻ ചെയ്യേണ്ടത് ഇതാണ് t 0 ന് മുമ്പ് V 0 ആയിരിക്കും കാരണം Vs ഉം Is ഉം 0 ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂല്യങ്ങൾ ആ പദപ്രയോഗത്തിനും t 0 നും t 2 മൈക്രോ സെക്കൻഡുകൾ ഇടയിലും മാറ്റി സ്ഥാപിക്കുക എന്നതാണ് ഔട്ട്പുട്ട് 5 വോൾട്ട് വരെ ഉയരും അത് V s 2 ആണ് I s എന്നത് ഇപ്പോഴും 0 ആണ് t 2 മൈക്രോ സെക്കൻഡുകൾക്ക് ശേഷം Vs ന്റെ സംഭാവന 5 വോൾട്ട് ആയിരിക്കും അത് V s 2 ആണ് I s സംഭാവന മൈനസ് 10 വോൾട്ട് ആയിരിക്കും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഇത് മാറുകയും മൈനസ് 5 വോൾട്ടിൽ എന്നെന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്യും കാരണം ഞങ്ങൾക്ക് വ്യക്തമാക്കിയ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല അതിനാൽ ഞങ്ങൾ ചെയ്യേണ്ടത് ഒരേ സർക്യൂട്ട് പരിഹരിക്കുക എന്നതാണ് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള R t h ന്റെ മൂല്യം നിങ്ങൾക്കായി വീണ്ടും കണക്കാക്കി അത് 2 കിലോ Ω ആണെന്ന് നോക്കുക അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് മുമ്പത്തെ അതേ തരത്തിലുള്ള സർക്യൂട്ട് പരിഹരിക്കുക എന്നതാണ് എന്നാൽ അൽപ്പം കൂടുതൽ വിചിത്രമായ ഇൻപുട്ട് ഉപയോഗിച്ച് ഇൻപുട്ടുകൾ പീസ് തിരിച്ചുള്ള കോൺസ്റ്റന്റ് ആകുന്നിടത്തോളം ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഓരോ ഭാഗത്തെയും വെവ്വേറെ സ്റ്റെപ്പ് ഇൻപുട്ടായി കണക്കാക്കുന്നു അതിൻറെ ഇനിഷ്യൽ കണ്ടീഷനിൽ ത്തന്നെ അതിനാൽ ആദ്യം നമുക്ക് ഈ ഘട്ടമുണ്ട് 0 മുതൽ 5 വോൾട്ട് വരെയുള്ള ഇൻപുട്ട് ഘട്ടങ്ങൾ 0 മൈനസിൽ ആദ്യ ഘട്ടം പ്രയോഗിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഇനിഷ്യൽ കണ്ടീഷൻ 0 ആണ് അത് എന്തും ആകാം പക്ഷേ അത് 0 ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ t 0 മുതൽ t 2 മൈക്രോ സെക്കൻഡ് വരെയുള്ള കർവ്ന്റെ ഈ ഭാഗത്തിന് എനിക്ക് 0 മുതൽ 5 വോൾട്ട് വരെയുള്ള ഒരൊറ്റ ഘട്ടം മാത്രമേ ഉള്ളൂ അതായത് ഇതുപോലുള്ള ഒരു ഇൻപുട്ടിനായി ഞാൻ സർക്യൂട്ട് പരിഹരിക്കും ഇതിനുശേഷം ഇത് മാറും പക്ഷേ അത് പ്രശ്നമല്ല ഇഫക്റ്റ് പിന്നീട് മാത്രമേ വരൂ ഇത് 0 വോൾട്ട് ആണ് അത് 5 വോൾട്ട് അത് 2 മൈക്രോ സെക്കൻഡ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത് ഇതിനകം ചെയ്തുകഴിഞ്ഞു അതിനാൽ 0 മുതൽ 2 മൈക്രോ സെക്കൻഡ് വരെയുള്ള പരിഹാരം ഇതായിരിക്കും നമുക്ക് ഇപ്പോഴും ജനറൽ ഫോം ഉപയോഗിക്കാം അത് ഇൻഫിനിറ്റിയിലെ V c 0 യിലെ V c മൈനസ് ഇൻഫിനിറ്റിയിലെ V c ആണ് എക്സ്പോണൻഷ്യൽ മൈനസ് t R c R c എന്നിവയെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 2 മൈക്രോ സെക്കൻഡ് ആണ് അതിനാൽ ഔട്ട്പുട്ട് എന്തുചെയ്യും ഈ ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫിനിറ്റിയിലെ V c 5 വോൾട്ട് ആണ് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ സ്റ്റെപ്പ് ഇൻപുട്ട് ഉപയോഗിച്ച് ഞങ്ങൾ പരിഹരിക്കുന്നത് ഇൻഫിനിറ്റിയിലെ V c യഥാർത്ഥത്തിൽ 5 വോൾട്ടിൽ എത്തുമെന്നല്ല കാരണം ഇൻപുട്ട് വീണ്ടും മാറ്റുകയാണ് പക്ഷേ ഇത് ഘട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ആദ്യത്തേതും ഇപ്പോഴും എടുക്കുന്നതുമായ 5 വോൾട്ട് ഘട്ടം ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 5 വോൾട്ടിലേക്ക് പോകും അതിനാൽ ഈ ഘട്ടം മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്ന് കരുതുന്ന അവസാന വ്യവസ്ഥയാണ് അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതിനാൽ ഇവിടെ ഇൻഫിനിറ്റിയിലെ V c എന്നത് 5 വോൾട്ട് ആണ് 0 യിലെ V c എന്നത് 0 ആണ് നമുക്ക് മൈനസ് 5 ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി എനിക്ക് 5 വോൾട്ട് മൈനസ് 5 വോൾട്ട് എക്സ്പോണൻഷ്യൽ മൈനസ് t 2 മൈക്രോ സെക്കൻഡ് ഉണ്ട് ഞാൻ ആ ഭാഗം സ്കെച്ച് ചെയ്താൽ അത് ഒടുവിൽ 5 വോൾട്ടിൽ എത്തുമായിരുന്നു പക്ഷേ ഞാൻ എടുക്കുന്നത് 2 മൈക്രോ സെക്കൻഡ് ആണ് ഞങ്ങൾക്ക് മറ്റൊരു ഘട്ടമുണ്ട് അതിനാൽ നമുക്ക് അത് ഒരു പ്രത്യേക ഘട്ടമായി കണക്കാക്കാം ആ ഘട്ടം മൈനസ് 5 വോൾട്ടിലേക്ക് പോകുന്നു അതിനാൽ തുടർന്നുള്ള കാലയളവിലേക്ക് ഇൻഫിനിറ്റിയിലേക്ക് 2 മൈക്രോ സെക്കൻഡ് ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ഇൻഫിനിറ്റിയിൽ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല അതിനാൽ ഇത് വാലിഡ് ആയിരിക്കും ഇതാണ് ഡിഫറെൻസ് സ്റ്റെപ് റെസ്പോണ്സ്സ് ഈ ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് മൈനസ് 5 വോൾട്ടിലേക്ക് പോകുന്നതും t ഇൻഫിനിറ്റിയിൽ കപ്പാസിറ്റർ തുറന്നിരിക്കുന്നതും കാണുക അതിനാൽ V t h എന്താണെങ്കിലും അത് V c യുടെ മൂല്യമായിരിക്കും അതിനാൽ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റിയുടെ V c മൈനസ് 5 വോൾട്ട് V c 0 ആണ് ഇത് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് ഇനിഷ്യൽ കണ്ടീഷൻ ഘട്ടത്തിന് തൊട്ടുമുമ്പാണ് 2 മൈക്രോ സെക്കൻഡ് എഴുതുകയും ഈ സ്കെച്ചിലൂടെ സംയോജനം കാണിക്കുകയും എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് വാദങ്ങൾ സങ്കീർണ്ണമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ 0 യിലെ ഈ V c ഇവിടെ t 0 ആണെന്ന് കരുതരുത് ഏത് ഘട്ടം പ്രയോഗിച്ചാലും അത് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് അതിനാൽ ഇത് 2 മൈക്രോ സെക്കൻഡിലാണ് നിങ്ങൾ ഇത് കണക്കാക്കിയാൽ ആദ്യ ഘട്ടം 0 മുതൽ 5 വോൾട്ട് ഘട്ടം ഇതുപോലെ ഒരു മാറ്റത്തിന് കാരണമാകും രണ്ടാമതായി നിങ്ങൾ സ്വയം കണക്കാക്കുമ്പോൾ ഈ സമവാക്യത്തിൽ t 2 മൈക്രോ സെക്കൻഡ് മാറ്റിസ്ഥാപിച്ചാണ് ഇത് ചെയ്യുന്നത് 16 വോൾട്ട് ആയി മാറുന്നു അതിനാൽ റെസ്പോൺസിന്റെ രണ്ടാം ഭാഗത്തിന് 0 ന്റെ V c 3 16 വോൾട്ട് മൈനസ് V c ഇൻഫിനിറ്റി ആണ് കൂടാതെ ആ Vc ഇൻഫിനിറ്റി എന്നത് മറ്റൊന്നുമല്ല മൈനസ് 5 വോൾട്ട് ആണ് കാരണം അത് ഒടുവിൽ എത്താൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ കൃത്യമായി ആയിരിക്കും കാരണം സർക്യൂട്ട് ഒന്നുതന്നെയാണ് ടൈം കോൺസ്റ്റന്റ് ഒന്നുതന്നെയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഓരോ തവണയും മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒരു പുതിയ ഘട്ടമായി കണക്കാക്കുന്നു ഒരു പുതിയ ഘട്ടത്തിന്റെ ആരംഭം അത് പരിഹരിക്കുക ഈ ഭാഗത്തിന് പരിഹാരം മൈനസ് 5 വോൾട്ട് 8 16 വോൾട്ട് എക്സ്പോണൻഷ്യൽ മൈനസ് t 2 മൈക്രോ സെക്കൻഡ് ആണ് അതിനാൽ അത് ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് ഇത് ഒടുവിൽ മൈനസ് 5 വോൾട്ടിൽ എത്തും അത് ചെയ്യുന്ന രീതി അങ്ങനെയാണെന്ന് കരുതുന്നു അതിനാൽ ആദ്യ ഘട്ടം അതിനെ ചില പോസിറ്റീവ് മൂല്യത്തിലേക്ക് കൊണ്ടുപോകും അത് 5 വോൾട്ട് വരെ എത്തില്ല കാരണം ഞങ്ങൾ ഇതിന് 2 മൈക്രോ സെക്കൻഡ് മാത്രമേ നൽകിയിട്ടുള്ളൂ 2 മൈക്രോ സെക്കൻഡ് എന്നത് സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ആണ് ഇതിന് നിരവധി ടൈം കോൺസ്റ്റന്റ് ആവശ്യമാണ് അങ്ങനെ അത് 5 വോൾട്ടിന് അടുത്ത് എത്തും ഇപ്പോൾ അത് ഈ വോൾട്ടേജിൽ എത്തുന്നു തുടർന്ന് അത് മൈനസ് 5 വോൾട്ടിലേക്ക് തെറ്റായി മാറുന്നു കാരണം രണ്ടാം ഘട്ടം പ്രയോഗിക്കുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് ശരിക്കും t മൈനസ് 2 മൈക്രോ സെക്കൻഡ് ആയിരിക്കണം ഞാൻ ഇവിടെ നൊട്ടേഷനിൽ വളരെ കർശനമായിരുന്നില്ല ഈ t ഇവിടെ ടൈം ആക്സിസ് t യെ പരാമർശിക്കുന്നില്ല പക്ഷേ ഇത് ടൈം എലാപ്സ് ആണ് രണ്ടാം ഘട്ടം പ്രയോഗിച്ചതിന് ശേഷം അതിനാൽ ഞാൻ അവിടെ t മൈനസ് 2 മൈക്രോ സെക്കൻഡ് എന്ന് എഴുതേണ്ടതായിരുന്നു കാരണം ഇത് 2 മൈക്രോ സെക്കൻഡിൽ കൂടുതൽ t ക്ക് മാത്രമേ ബാധകമാകൂ അതിനാൽ ഇത് രണ്ടാം ഭാഗമാണ് ഇത് ആദ്യ ഭാഗമാണ് അതിനാൽ സമാനമായ രീതിയിൽ നിങ്ങൾക്ക് നിരവധി റെസിസ്റ്ററുകളുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കാം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂല്യങ്ങൾ ചുവടുവെക്കുന്ന നിരവധി ഇൻഡിപെൻഡന്റ് സോഴ്സ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചുകളുടെ അവസ്ഥകൾ മാറ്റുമ്പോൾ ചില സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കുന്ന വോൾട്ടേജുകളും കറന്റുകളും ശരിയാക്കാം ഇത് ഫലത്തിൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പോലെ കാണപ്പെടും ചിലപ്പോൾ നിങ്ങൾ സ്വിച്ചുകളുടെ അവസ്ഥകൾ മാറ്റുമ്പോൾ ടൈം കോൺസ്റ്റന്റ് പോലും മാറാം അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ ഓരോ ഘട്ടം പ്രയോഗിച്ചതിന് ശേഷവും നിങ്ങൾ ഒരു നിശ്ചിത ഇനിഷ്യൽ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ഇൻപുട്ട് സർക്യൂട്ടായി കണക്കാക്കുകയും തുടർന്ന് ഫലം വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ അടുത്ത ഘട്ടം പ്രയോഗിക്കുമ്പോൾ മുമ്പത്തെ പരിഹാരത്തിൽ നിന്ന് ഇനിഷ്യൽ കണ്ടീഷൻ കണക്കാക്കി മുന്നോട്ട് പോകുക അതിനാൽ നിങ്ങൾക്ക് വളരെ വലിയ ഘട്ടങ്ങളുണ്ടെങ്കിൽപ്പോലും നിങ്ങൾക്ക് അത് വ്യവസ്ഥാപിതമായി ചെയ്യാൻ കഴിയും സർക്യൂട്ടുകളിലെ വോൾട്ടേജുകൾ അല്ലെങ്കിൽ കറന്റുകൾ ഇത്തരത്തിൽ വ്യവസ്ഥാപിതമായി പരിഹരിക്കാനാകും